അത് നൂതന സംഖ്യാ സംയോജനത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് നിങ്ങ്ങളെ എത്തിക്കുന്നു അതിനാൽ ചിലതിൽ വളരെ സമർത്ഥമായ ചില ഗണിതങ്ങളുണ്ട് 2 N 1 കൃത്യതയ്ക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഗോസിന് നന്ദി പറയുന്നതിൽ അതിശയിക്കാനില്ല അതേ N പോയിന്റുകൾ ശരിയായി സൂക്ഷിക്കുന്നു ഇത് അസാധ്യമാണെന്ന് തോന്നുന്നു അത് എങ്ങനെ ശരിയാണ് അതിനാൽ അടുത്ത കുറച്ച് സ്ലൈഡുകളിൽ അതേ N പോയിന്റുകൾ ശരിയാക്കി 2 N 1 എന്ന ക്രമത്തിന്റെ കൃത്യത എങ്ങനെ നേടാമെന്ന് മനസിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതിനാൽ ഞങ്ങൾ ഘട്ടം ഘട്ടമായി അതിലൂടെ കടന്നുപോകും ഇതുവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം ഈ ഫംഗ്ഷന്റെ അനലിറ്റിക്കൽ ഇന്റഗ്രേഷൻ എനിക്ക് അറിയാത്തപ്പോൾ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കഴിയുന്നത്ര കൃത്യമായി കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം ഇപ്പോൾ ആന്തരിക ഉൽപ്പന്ന അവകാശം എന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ രണ്ട് വെക്ടറുകൾ നൽകുകയാണെങ്കിൽ അവയ്ക്കിടയിൽ എന്തെങ്കിലും ആംഗിൾ തീറ്റ ഉപയോഗിച്ച് a b എന്ന് പറയുക ഈ രണ്ട് വെക്റ്ററുകളുടെയും ആന്തരിക ഉൽപ്പന്നം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ അത് എന്തെഴുതും അതിനാൽ ലീനിയർ ബീജഗണിതത്തിന്റെ ഭാഷയിൽ ഞാൻ ഇത് എഴുതാം വെക്റ്ററുകളുടെ ഭാഷയിൽ ഞാൻ ഇത് ശരിയാണെന്ന് എഴുതും രണ്ടും അർത്ഥമാക്കുന്നത് ഒരേ കാര്യമാണ് ഇപ്പോൾ ഇത് വെക്റ്ററുകളുടെ ആന്തരിക ഉൽപ്പന്നത്തെക്കുറിച്ചാണ് ഫംഗ്ഷനുകളുടെ ആന്തരിക ഉൽപ്പന്നത്തെ സംബന്ധിച്ചെങ്ങനെ ഫംഗ്ഷനുകളുടെ ആന്തരിക ഉൽപ്പന്നങ്ങളെ എങ്ങനെ എടുക്കും അതാണ് നമുക്ക് ഇവിടെ കൂടുതൽ ആവശ്യമുള്ള ആശയം അതിനാൽ ഡോട്ട് ഉൽപ്പന്ന ഘടകം തിരിച്ചുള്ള ഡോട്ട് ഉൽപ്പന്നം അത് ഒരു അവിഭാജ്യമായി സാമാന്യവൽക്കരിക്കുന്നു അതിനാൽ രണ്ട് ഫംഗ്ഷനുകൾ പറയുകയും അവയുടെ ഉൽപ്പന്നം ശരിയാക്കുകയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനാൽ ചിഹ്നങ്ങൾ ആണ് അതിന്റെ മൂല്യം നൽകിയിരിക്കുന്നത് ഒരു ശരി അതിനാൽ വെക്റ്ററുകളുടെ ആന്തരിക ഉൽപ്പന്നത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആന്തരിക ഉൽപ്പന്നം ഉണ്ടായിരിക്കാം രണ്ട് നോൺ സീറോ വെക്റ്ററുകളുടെ ആന്തരിക ഉൽപ്പന്നം ഞാൻ നിങ്ങളോട് ചോദിക്കുമെന്ന് കരുതുക അത് 0 ആണെന്ന് കരുതുക അത് നിങ്ങളോട് എന്താണ് പറയുന്നത് അവയുടെ വെക്ടറുകൾ പരസ്പരം വലതുവശത്ത് ലംബമാണ് അതിനാൽ രണ്ട് വെക്ടറുകളും പൂജ്യമല്ലെങ്കിൽ ആന്തരിക ഉൽപ്പന്നം 0 എന്നതിനർത്ഥം വെക്ടറുകൾ പരസ്പരം ഓർത്തോഗണൽ ആണെന്നാണ് പൂജ്യമല്ലാത്ത രണ്ട് ഫംഗ്ഷനുകൾക്ക് ആന്തരിക ഉൽപ്പന്നം 0 ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അതേ പദാവലി ബാധകമാണ് ഈ രണ്ട് ഫംഗ്ഷനുകളും പരസ്പരം യോജിച്ചതാണെന്ന് ഞങ്ങൾ പറയുന്നു എങ്കിൽ f g orthogonal ആണ് സ്പെയ്സിലെ രണ്ട് അമ്പടയാളങ്ങളായി നിങ്ങൾക്ക് ഇനി അതിനെ ദൃശ്യവൽക്കരിക്കാൻ കഴിയില്ല എന്നാൽ ചില അമൂർത്തീകരണങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന വിലയാണിത് ഇപ്പോൾ വെക്റ്ററുകളിൽ നിന്ന് ഫംഗ്ഷനുകളിലേക്കുള്ള ഡോട്ട് ഉൽപ്പന്നത്തിനായുള്ള ആശയം നിങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഓർത്തോഗണാലിറ്റിയെക്കുറിച്ച് ശരിയായി സംസാരിക്കാം അതിനാൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഗൌസിയൻ ക്വാഡ്രേച്ചർ എന്ന് വിളിക്കപ്പെടുന്ന ഇത് N നേക്കാൾ കുറഞ്ഞ ക്രമത്തിലുള്ള എല്ലാ ബഹുപദങ്ങൾക്കും ഓർത്തോഗണൽ ആയ വിധത്തിൽ N എന്ന ക്രമത്തിന്റെ ഒരു ബഹുപദം നിർമ്മിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതിനാൽ k പരമാവധി N 1 ആണെന്നുള്ള ഈ അറിയിപ്പ് നിങ്ങൾക്ക് കഴിയും 0 ന് തുല്യമായ k എടുക്കുക അതായത് ശരാശരി 0 ആണ് അപ്പോൾ ശരിയാണ് അതിനാൽ നിങ്ങൾ ചെയ്യുന്നത് N എന്ന ക്രമത്തിന്റെ ഒരു പോളിനോമിയൽ നിർമ്മിക്കുക എന്നതാണ് അത് പോളിനോമിയലുകളുടെ എല്ലാ ലോവർ ഓർഡറുകൾക്കും ഓർത്തോഗണൽ ആണ് നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യും വെക്ടറുകൾ ഉപയോഗിച്ച് ഈ പ്രക്രിയ എങ്ങനെ ചെയ്തുവെന്ന് നമുക്ക് വീണ്ടും മടങ്ങാം വെക്ടറിൽ ഇതുപോലുള്ള ഒരു കൂട്ടം വെക്ടറുകൾ ഞാൻ നിങ്ങൾക്ക് നൽകി എന്ന് കരുതുക 3D സ്പെയ്സിൽ ശരി എന്ന് പറയാം നമുക്ക് ഈ 3 വെക്ടറുകൾ പറയട്ടെ അതിൽ 3 ഡൈമൻഷണൽ സ്പെയ്സും ഞാനും പറയുന്നു ഈ 3 വെക്ടറുകൾ നൽകിയാൽ നിങ്ങൾക്ക് 3 വെക്ടറുകളുടെ ഒരു കൂട്ടം നിർമ്മിക്കാനാകുമോ അവയെല്ലാം പരസ്പരം ഓർത്തോഗണൽ ആണ് നിങ്ങൾക്ക് ശരിയാക്കാം ഗ്രാം ഷ്മിറ്റ് പ്രക്രിയ വലത് അതിനാൽ ഗ്രാം ഷ്മിറ്റ് പ്രക്രിയയാണ് നിങ്ങൾ പിന്തുടരുക നിങ്ങൾ ഒരു വെക്റ്റർ ആരംഭിക്കുക ആദ്യത്തെ വെക്റ്ററിനൊപ്പം രണ്ടാമത്തെ വെക്റ്ററിന്റെ ഭാഗം കുറയ്ക്കുക നിങ്ങൾക്ക് അടുത്ത വെക്റ്റർ ലഭിക്കും തുടർന്ന് നിങ്ങൾക്ക് N ലഭിക്കുന്ന ഘട്ടങ്ങളിൽ ഈ പ്രക്രിയ ആവർത്തിക്കുക വെക്ടറുകൾ എല്ലാം പരസ്പരം വലത് വൃത്താകൃതിയിലാണ് അതിനാൽ ലീനിയർ ബീജഗണിതം ചെയ്യാത്ത ചുരുക്കം ചിലർക്ക് ഗ്രാം ഷ്മിഡിന്റെ ഈ ആശയം പുനഃപരിശോധിക്കാം അതേ പ്രക്രിയ തന്നെ ഫംഗ്ഷനുകളിലും പ്രയോഗിക്കാൻ കഴിയും കാരണം ഡോട്ട് പ്രോഡക്റ്റ് ഓർത്തോഗണാലിറ്റി എന്ന ആശയം ഫംഗ്ഷനുകൾക്കും ശരിയാണ് അതിനാൽ എനിക്ക് ഈ ആരംഭിക്കാം ശരി അതിനാൽ ഞാൻ എടുക്കുകയും ഞാൻ നിങ്ങൾക്ക് ഇടവേള നൽകുകയും ചെയ്യുന്നു 1 മുതൽ 1 വരെ അതിനാൽ ഫംഗ്ഷൻ 1 ആണെന്നാണോ പറയുക അങ്ങനെ ഒപ്പം ഇവ രണ്ടും പരസ്പരം ഓർത്തോഗോണൽ ആണോ നമുക്ക് കണ്ടെത്താം അതിനാൽ ഞാൻ ചെയ്താൽ ഉത്തരം വിദ്യാർത്ഥി 23 അതിനാൽ ഈ രണ്ട് ഫംഗ്ഷനുകളും പരസ്പരം ഓർത്തോഗണൽ അല്ല പക്ഷേ ഒരു പ്രശ്നവുമില്ല എനിക്ക് ഈ ഗ്രാം ഷ്മിഡ് പ്രക്രിയ പ്രയോഗിക്കാൻ കഴിയും കൂടാതെ എനിക്ക് പോളിനോമിയൽ ഫംഗ്ഷന്റെ ഒരു കൂട്ടം ഫംഗ്ഷനുകളിൽ എത്തിച്ചേരാനാകും അവയെല്ലാം പരസ്പരം ശരിയാണ് ഇത് തീർച്ചയായും ചെയ്തു ഈ ബഹുപദങ്ങൾക്ക് വളരെ നല്ല പേരുണ്ട് ഓർത്തോഗണലൈസേഷനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ബഹുപദങ്ങളെ ലെജൻഡ്രെ പോളിനോമിയലുകൾ എന്ന് വിളിക്കുന്നു വ്യത്യസ്ത പേരുകളും വ്യത്യസ്ത ഗുണങ്ങളുമുള്ള ഓർത്തോഗണൽ പോളിനോമിയലുകളുടെ ഒരു മുഴുവൻ കുടുംബവും ഉണ്ട് എന്നാൽ ആശയം ഫംഗ്ഷനുകൾക്കിടയിൽ ഒരേ ഓർത്തോഗണാലിറ്റിയാണ് ഇതുവരെ വളരെ നല്ലതായിരുന്നു അതിനാൽ ഘട്ടം 1 ന്റെ സംഗ്രഹം എന്താണ് ഞാൻ ഓർത്തോഗണൽ ശരിയായ ഒരു കൂട്ടം പോളിനോമിയലുകൾ നിർമ്മിച്ചു എന്നതാണ് അതിനാൽ ഞാൻ എന്റെ N ശരിയാക്കുകയാണെങ്കിൽ എല്ലാ x നും ഓർത്തോഗണലായാണ് ഞാൻ ഇത് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ശരി ഇപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കും അത് നമ്മളെ രണ്ടാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് നോക്കാം എന്തെങ്കിലും ചോദ്യങ്ങൾ വലത് മായ്ക്കുക ഇപ്പോൾ ഘട്ടം 2 ഈ ബഹുപദ ഫംഗ്ഷന്റെ വേരുകൾ എന്തൊക്കെയാണ് ഞാൻ വളരെ വ്യക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നില്ല ശരി ഈ Nth ഓർഡർ പോളിനോമിയലിന് എത്ര വേരുകൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറയുന്നു ആദ്യ ക്രമം പോളിനോമിയൽ എത്ര വേരുകൾ അല്ലെങ്കിൽ പൂജ്യങ്ങളെ നിങ്ങൾ അതിനെ പൂജ്യം എന്ന് വിളിക്കുന്നു അതിന് എത്ര വേരുകൾ ഉണ്ട് വിദ്യാർത്ഥി പരമാവധി N പരമാവധി N ൽ N എന്നല്ല അവയ്ക്ക് വേരുകൾ ശരിയായി ആവർത്തിക്കാൻ കഴിയും 2 എന്നത് രണ്ടുതവണ ശരിയാണ് അതിനാൽ N വേരുകൾ ഉണ്ട് വേരുകൾ കൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് ഫംഗ്ഷൻ 0 ലേക്ക് പോകുന്ന സ്ഥലങ്ങൾ വലത് അതിനാൽ നന്നായി സംഖ്യാ വിശകലനത്തിൽ നിന്ന് ഒരു നല്ല സിദ്ധാന്തമുണ്ട് അത് ഞങ്ങൾ ഇവിടെ തെളിയിക്കില്ല എന്നാൽ ഓർത്തോഗണൽ പോളിനോമിയലുകൾക്ക് വേരുകൾ എല്ലായ്പ്പോഴും യഥാർത്ഥവും വ്യതിരിക്തവുമാണെന്ന് അത് പറയുന്നു ഞങ്ങൾ അത് ശരിയാക്കും അതിനാൽ ഓർത്തോഗണൽ യഥാർത്ഥവും വ്യതിരിക്തവുമായ വേരുകൾക്ക് ശരിയാണ് അതിനാൽ ഈ ചർച്ച എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ടാകും നമുക്ക് ഇത് അടുപ്പിക്കാൻ ശ്രമിക്കാം അതിനാൽ പോളിനോമിയൽ അല്ലാത്തത് ഞങ്ങളുടെ പ്രവർത്തനമാണെന്ന് ഓർമ്മിക്കുക ഇത് ചില പൊതു പ്രവർത്തനമാണ് ശരി ഇപ്പോൾ രസകരമായ എന്തെങ്കിലും പരീക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു 2 N 1 എന്ന ക്രമത്തിന്റെ പോളിനോമിയൽ ഉപയോഗിച്ച് അതിനെ ഏകദേശമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് നേരെ ഉദാഹരണത്തിലേക്ക് കടക്കാം ശരി അതിനാൽ ഇവിടെയുള്ള ഈ ഉദാഹരണം ന്യൂമറേറ്റർ ക്രമം 3 ക്യൂബിക് പോളിനോമിയലിന്റെ ഒരു പോളിനോമിയലാണ് ഡിനോമിനേറ്റർ ഒരു പോളിനോമിയൽ ഓർഡർ 2 ആണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഹൈസ്കൂളിൽ ചെയ്യുമായിരുന്ന ഒരു കാര്യത്തിലേക്ക് തിരികെ പോകുന്നു ഇതിനെ യുക്തിപരമായ പ്രവർത്തനങ്ങളുടെ യൂക്ലിഡിയൻ വിഭജനം എന്ന് വിളിക്കുന്നു ഞാൻ ഈ വിഭജനം ചെയ്താൽ ഇത് ഓർഡർ 2 ആണ് ഇത് ഓർഡർ 3 ആണ് ഘടകഭാഗം ഓർഡർ 1 റൈറ്റ് ആയിരിക്കും അതിനാൽ അവൻ ഇവിടെയുള്ള ആളാണ് ബാക്കിയുള്ളവരും ബിരുദമുള്ളവരായിരിക്കും വിദ്യാർത്ഥി 1 1 ഈ സാഹചര്യത്തിൽ ശരിയാണ് അതിനാൽ ഇവിടെയും അതേ കാര്യം ബാധകമാണ് എനിക്ക് ഒരു പ്ലസ് ലഭിക്കും എനിക്ക് കുറച്ച് ബാക്കിയുണ്ട് എന്നാൽ ഒരു പ്രത്യേക സ്വത്ത് എന്താണ് q ആൻഡ് r അവരുടെ ഓർഡർ എന്തായിരിക്കും വിദ്യാർത്ഥി N 1 N 1 പരമാവധി കാരണം ഞാൻ N ക്രമത്തിന്റെ പോളിനോമിയൽ കൊണ്ട് ഹരിച്ചിരിക്കുന്നു കൂടാതെ 2 N 1 എന്ന ക്രമത്തിൽ ഫംഗ്ഷൻ ഏകദേശം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ N 1 വലത് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ q can ആണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ചത് അതിനാൽ N നേക്കാൾ കുറവ് ഓർഡർ ചെയ്യുക അതായത് ഞാൻ ഈ ഫോർമുല ഇവിടെ തുറന്നാൽ 2 N 1 എന്ന ഓർഡറിന്റെ ഏകദേശ കണക്കാണിത് അത് നിങ്ങളുടെ യൂക്ലിഡിയൻ വിഭജനമാണ് ഇപ്പോൾ അടുത്തത് എന്തായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു അതെ ഡിനോമിനേറ്റർ വലതുവശത്ത് നീക്കംചെയ്തു അതിനാൽ എനിക്ക് ഒരു ക്വട്ടേഷൻ ഉണ്ട് എനിക്ക് ഇവിടെ ബാക്കിയുണ്ട് എന്തായിരുന്നു ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം വിദ്യാർത്ഥി സംയോജിപ്പിക്കുക ഫംഗ്ഷൻ ശരിയായി സംയോജിപ്പിക്കുക അതിനാൽ ഞങ്ങൾ കൃത്രിമത്വം നോക്കുന്ന ചിലത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് സംയോജിപ്പിക്കാൻ ശ്രമിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഒരു ഘട്ടം 4 ആയി എടുക്കുന്നു ഈ പദപ്രയോഗത്തിന്റെ ഇരുവശത്തും ഞങ്ങൾ സംയോജിപ്പിക്കാൻ പോകുന്നു ശരി അതിനാൽ ഞാൻ ഈ മുഴുവൻ കാര്യവും സംയോജിപ്പിക്കാൻ പോകുന്നു ഇവ ഒരിക്കലും അനിശ്ചിതത്വ അവിഭാജ്യങ്ങളല്ലെന്ന് ഓർക്കുക ഇവ എല്ലായ്പ്പോഴും കൃത്യമായ അവിഭാജ്യ ഘടകങ്ങളാണ് ശരി നമ്മൾ സംസാരിക്കുന്നത് കൃത്യമായ അവിഭാജ്യ ഘടകങ്ങളെക്കുറിച്ചാണ് അതിനാൽ നിങ്ങൾക്ക് എന്നോട് പറയാമോ നമുക്ക് ഇവിടെ ആദ്യ ടേം നോക്കാം ശരി ഞാൻ ഈ N 1 ശരിയാണ് ഇത് N 1 ആയിരുന്നു അതിനാൽ എനിക്ക് ഇത് ഇങ്ങനെ എഴുതാമായിരുന്നു കൂടാതെ സംഭവിക്കുന്നത് P N x കൊണ്ട് ഗുണിച്ച് സംയോജിപ്പിക്കുകയാണ് എന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇവ നിർമ്മിച്ചത് വിദ്യാർത്ഥി ഓർത്തോഗണൽ അതിനെക്കാൾ ഓരോ ഡിഗ്രിയിലും ഒാർത്തോഗണൽ കുറവാണ് ഇത് ഈ ആൾക്കും ഈ പയ്യനും ഈ പയ്യനും എല്ലാവർക്കും ഓർത്തോഗണൽ ആണ് അതിനാൽ ഈ സംയോജനം ആദ്യ ടേമിലേക്ക് പോകുന്നു 0 അതിനാൽ എനിക്ക് ഈ ഇന്റഗ്രലുകൾ ആയി അവശേഷിക്കുന്നു എനിക്ക് ഈ പദം ഇനി അതിന്റെ അവകാശം ലളിതമാക്കാൻ കഴിയില്ല ഇത് ക്രമം N 1 ആണ് എന്നാൽ അത് ശരിയാണ് എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ നമ്മുടെ പക്കൽ എന്താണ് ഉള്ളത് ഞങ്ങളുടെ ഫംഗ്ഷൻ ശരിയാണെന്ന് വിലയിരുത്താൻ എനിക്ക് സാധ്യതയുള്ള N പോയിന്റുകൾ ഉണ്ട് എനിക്ക് അങ്ങനെയുണ്ട് ആ N പോയിന്റുകൾ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് ഇത് എഴുതാമോ നമ്മൾ ഇതിനകം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇത് കൂടുതൽ ലളിതമാക്കാമോ എനിക്ക് ഒരു Lagrange പോളിനോമിയൽ നിർമ്മിക്കാൻ കഴിയുമോ എനിക്ക് ശരിയാക്കാം കാരണം എനിക്ക് അതിനുള്ള ഒരു പദപ്രയോഗം ഉണ്ട് എനിക്ക് q അറിയാം എനിക്ക് p അറിയാം എനിക്ക് r അറിയാം അതിനാൽ എനിക്കറിയാം ഡിഗ്രി N 1 ന്റെ ചില പോളിനോമിയൽ ശരിയാണ് അതിനാൽ ലാഗ്രാഞ്ച് പോളിനോമിയലുകൾ ഞങ്ങൾ മുമ്പ് ചർച്ചചെയ്തത് എനിക്ക് ഉപയോഗിക്കാം അതിനാൽ ഈ വ്യക്തിയെ ശരിയായി സംയോജിപ്പിക്കുക അപ്പോൾ ഇത് എന്തായിരിക്കും വീണ്ടും വളരെ ലളിതമാണ് i 1 മുതൽ N വരെ തുല്യമാണ് ആദ്യ പദം എന്തായിരിക്കണം ഞാൻ ഒരു ഫംഗ്ഷൻ r സംയോജിപ്പിക്കുകയാണ് അതിനാൽ ആദ്യ ടേം ഞാൻ ഉപയോഗിച്ചത് ഞാൻ ഉരുത്തിരിഞ്ഞ ഇന്റഗ്രേഷൻ ഫോർമുലയായിരിക്കണം ലഗ്രാഞ്ച് പോളിനോമിയലുകൾക്കായി ഞാൻ ഉരുത്തിരിഞ്ഞ ക്വാഡ്രേച്ചർ നിയമം ആദ്യ പദം ചില നോഡിലെ ഫംഗ്ഷന്റെ മൂല്യം കൊണ്ട് ഗുണിച്ചതിന്റെ r ആയിരിക്കണം വിദ്യാർത്ഥി ഭാരം തൂക്കങ്ങൾ അങ്ങനെ തൂക്കങ്ങൾ ശരിയായ പ്രവർത്തനത്തെ ആശ്രയിക്കുന്നില്ല അതിനാൽ ഈ തൂക്കങ്ങൾ മുൻകൂട്ടി കണക്കുകൂട്ടിയതിലൂടെ നൽകിയതാണെന്ന് ഓർക്കുക അതിനാൽ സമയം ലാഭിക്കുന്നു അതിനാൽ എനിക്ക് ഈ വ്യക്തിയുടെ അവിഭാജ്യഘടകം വേണം മറ്റ് ചില പ്രവർത്തനങ്ങളുടെ മൂല്യം എനിക്ക് എങ്ങനെയെങ്കിലും അവശേഷിക്കുന്നു അതിനാൽ ഞങ്ങൾ സ്ഥലങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടോ ഇല്ല ശരി ഞങ്ങൾ അത് പൊതുവെ ശരിയാക്കി അതിനാൽ ഇപ്പോൾ നമുക്ക് തന്ത്രങ്ങളുടെ അവസാന കാർഡ് പ്ലേ ചെയ്യാം അത് സ്റ്റെപ്പ് 5 ആണ് N പോയിന്റുകൾ വേരുകളായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനാൽ അതിന്റെ മൂല്യം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് എന്ത് പറയാൻ കഴിയും ശരി അങ്ങനെയായിരിക്കും കാരണം അത് ശരിയുടെ മൂലമാണ് അതിനാൽ ഇതും ഇതും ഒരുമിച്ച് ചേർക്കുന്നത് തുല്യമാണ് ഇപ്പോൾ ഞാൻ ഈ ആളെ ഇവിടെ ഉപയോഗിക്കും പക്ഷേ എനിക്ക് പകരം വയ്ക്കാൻ കഴിയും എനിക്ക് പകരം വയ്ക്കാം അതിനാൽ എന്തായാലും ഇത് മുഴുവൻ കാര്യമായിരുന്നു എന്തായാലും x ന്റെ ഏകദേശ കണക്ക് ശരിയാണ് അതിനാൽ ഇത് അങ്ങനെയാകും ഇത് ഏകദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനാൽ ഇത് ഒരു ക്വാഡ്രേച്ചർ റൂൾ പോലെ തോന്നുന്നുണ്ടോ ഇത് ഒരു ക്വാഡ്രേച്ചർ റൂൾ പോലെ തോന്നുന്നു എന്തുകൊണ്ടെന്നാൽ നോഡ് മൂല്യങ്ങൾ നൽകണം സ്വതന്ത്രമായി കണക്കാക്കുന്ന തൂക്കങ്ങൾ നൽകിയിരിക്കുന്നു അതിനാൽ എനിക്ക് ഒരു ക്വാഡ്രേച്ചർ റൂൾ ലഭിച്ചു കാരണം ഗൌസിന്റെയും ലെംഗഡ്രെയുടെയും അത്യധികമായ മിടുക്ക് കാരണം ഗൌസ് ലെംഗഡ്രെ എന്ന പേര് അവരുടെ പിന്നാലെ പോകുന്നു അതിനാൽ നിങ്ങൾക്ക് 2 N 1 റൈറ്റ് ഓർഡർ ചെയ്യാൻ കൃത്യമായ ഒരു Gauss Lengedre ക്വാഡ്രേച്ചർ റൂൾ ഉണ്ട് എന്തായിരുന്നു ഈ മികച്ച ഫലം ലഭിക്കുന്നതിന് നിങ്ങൾ ഒരു വില നൽകേണ്ടി വന്നിട്ടുണ്ടോ നമ്മൾ കണ്ടുപിടിക്കണം എന്നാൽ അത് 1 തവണയാണ് മറ്റെന്തെങ്കിലും വില ഞാൻ നൽകേണ്ടതുണ്ടോ വിദ്യാർത്ഥി N ന്റെ മൂല്യം ആയിരിക്കും N യുടെ മൂല്യം ആയിരിക്കും വിദ്യാർത്ഥി ഉയർന്നത് N ന്റെ മൂല്യം ഉയർന്നതായിരിക്കും N ന്റെ ഒരു മൂല്യവും നിങ്ങളുടേതല്ല 4 പോയിന്റിൽ മാത്രമേ എനിക്ക് ഫംഗ്ഷനിലേക്ക് ആക്സസ് ഉള്ളൂ എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ അത് സൃഷ്ടിക്കും നിങ്ങൾക്ക് എത്ര കൃത്യത വേണമെന്നത് നിങ്ങളുടെ കൈയിലാണ് എന്നാൽ 4 ന് തുല്യമായ N തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം ഏത് ക്രമത്തിലാണ് കൃത്യമാകുന്നത് ഓർഡർ 2 N 1 അതായത് വിദ്യാർത്ഥി 7 നമ്മൾ കണ്ടുപിടിക്കണം എന്നാൽ അത് 1 തവണയാണ് മറ്റെന്തെങ്കിലും വില ഞാൻ നൽകേണ്ടതുണ്ടോ വിദ്യാർത്ഥി N ന്റെ മൂല്യം ആയിരിക്കും N യുടെ മൂല്യം ആയിരിക്കും വിദ്യാർത്ഥി ഉയർന്നത് N ന്റെ മൂല്യം ഉയർന്നതായിരിക്കും N ന്റെ ഒരു മൂല്യവും നിങ്ങളുടേതല്ല 4 പോയിന്റിൽ മാത്രമേ എനിക്ക് ഫംഗ്ഷനിലേക്ക് ആക്സസ് ഉള്ളൂ എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ അത് സൃഷ്ടിക്കും നിങ്ങൾക്ക് എത്ര കൃത്യത വേണമെന്നത് നിങ്ങളുടെ കൈയിലാണ് എന്നാൽ 4 ന് തുല്യമായ N തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം ഏത് ക്രമത്തിലാണ് കൃത്യമാകുന്നത് ഓർഡർ 2 N 1 അതായത് വിദ്യാർത്ഥി 7 oന്റെ വേരുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ നിർബന്ധിതരായി h സ്പെയ്സിംഗ് സമയത്ത് എന്റെ ഇടവേള ഒരേപോലെ വെട്ടിമാറ്റുമെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല അല്ലാത്തപക്ഷം എന്ത് സംഭവിക്കും എന്നതിന്റെ വേരുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഈ പ്രോപ്പർട്ടി ശരിയല്ല പക്ഷേ അത് നൽകേണ്ട ഒരു ചെറിയ വിലയാണ് അതിനാൽ ഈ ഗാസ് ലെംഗഡ്രെ ക്വാഡ്രേച്ചർ നിയമങ്ങളുടെ കാര്യത്തിൽ ഇവ രണ്ടും മുൻകൂട്ടി കണക്കാക്കിയവയാണ് ഗണിതശാസ്ത്ര ലൈബ്രറികൾ ഉണ്ട് MATLAB ൽ അതിന്റെ C ഉണ്ട് അത് അവയെ വിളിച്ചാൽ മാത്രം മതി അവ നിങ്ങൾക്ക് x ന്റെയും w യുടെയും സെറ്റ് നൽകും ഇത് നിങ്ങളുടെ കാര്യത്തിലേക്ക് പ്ലഗ് ചെയ്യുക നിങ്ങൾ ശരി ചെയ്തു അതിനാൽ സമഗ്ര സമവാക്യ സമീപനങ്ങളിൽ ഞങ്ങൾ ഈ ക്വാഡ്രേച്ചർ അതിനാൽ നമ്മുടെ ഗ്രാഹ്യത്തെ പരിശോധിക്കുന്നതിന് അവ പരസ്പരം ശരിയാണോ എന്ന് നോക്കാം അതിനാൽ ഞാൻ ആന്തരിക ഉൽപ്പന്നം എടുത്താൽ ശരിയാണ് അതിനാൽ എനിക്ക് എന്ത് ലഭിക്കും ഇത് 0 ശരിയാകുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് എടുക്കാം അങ്ങനെ എനിക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് അതിനാൽ ശരിയാണ് ഇതും 0 ആയി വരുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഈ നമ്മുടെ ബഹുപദങ്ങൾ യഥാർത്ഥത്തിൽ ഓർത്തോഗണൽ ആണെന്ന് ഇത് കാണിക്കുന്നു നമുക്ക് മൂന്ന് വ്യത്യസ്ത രീതികൾ ഉപയോഗിച്ച് ഈ അവിഭാജ്യ മൂല്യം വിലയിരുത്തുകയാണ് ഇനി ചെയ്യാനുള്ളത് അതിനാൽ ആദ്യത്തെ ഉദാഹരണം ഉദാഹരണമായിരിക്കും ഞങ്ങൾക്ക് എന്താണ് ലഭിക്കേണ്ടതെന്ന് അറിയാൻ നിങ്ങൾക്ക് കൃത്യമായ കണക്കുകൂട്ടൽ എടുക്കാം അതിനാൽ ഇത് ഒരു ബഹുപദ ഫംഗ്ഷനാണ് അതിനാൽ സംയോജിപ്പിക്കുന്നത് നിസ്സാരമാണ് അതിനാൽ ഞാൻ ശരിയാകാൻ പോകുന്നു നമുക്ക് കുറച്ചുകൂടി ചെലവേറിയ മൂല്യനിർണ്ണയം പരീക്ഷിക്കാം പക്ഷേ ട്രപസോയിഡൽ റൂൾ എക്സ്റ്റൻഡഡ് ട്രപസോയ്ഡൽ റൂൾ എന്ന ഇൻഫീരിയർ റൂൾ ഉപയോഗിക്കുക അതിനാൽ ഇവിടെ പോയിന്റുകൾക്കിടയിലുള്ള സ്പെയ്സിംഗ് 1 മുതൽ 1 വരെ 3 പോയിന്റാണ് അതിനാൽ നിങ്ങളുടെ h സ്പെയ്സിംഗ് യഥാർത്ഥത്തിൽ 1 ന് തുല്യമാണ് അതിനാൽ 3 പോയിന്റ് ട്രപസോയ്ഡൽ നിയമം എനിക്ക് തരും അതിനാൽ ഇത് 5 ആയി വിലയിരുത്തുന്നു അതിനാൽ ട്രപസോയ്ഡൽ നിയമം ഇതിനകം തന്നെ കൃത്യമായ ഉത്തരം കണക്കാക്കുന്നതിന് മുകളിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും യഥാർത്ഥ ഉത്തരം 4 ആയിരിക്കുമ്പോൾ ചില ചെറിയ തുക 5 അല്ല അതിനാൽ അതാണ് വലിയ മാറ്റം ഒരു 2 പോയിന്റ് ഗാസ് ക്വാഡ്രേച്ചർ റൂൾ നമുക്ക് എന്താണ് നൽകുന്നതെന്ന് നോക്കാം അതിനാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ക്വാഡ്രേച്ചർ റൂൾ നിർവചിക്കുന്നത് നോഡുകളും ഭാരവും അനുസരിച്ചാണ് അതിനാൽ ഞാൻ 2 പോയിന്റ് റൂൾ ശരിയായി തിരഞ്ഞെടുത്താൽ N എന്നത് 2 ന് തുല്യമാണ് ഇത് എന്റെതാണ് ഞാൻ എടുക്കാൻ പോകുന്ന ഫംഗ്ഷൻ അതിനാൽ എനിക്ക് ഇതിനകം തന്നെ നോഡുകൾ അറിയാം അതായത് ഈ ഫംഗ്ഷൻ നോക്കുക ഈ ബഹുപദത്തിന്റെ വേരുകൾ ലളിതമായി ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ ഭാരം സംബന്ധിച്ച ചില അധിക വിവരങ്ങൾ ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ ഭാരങ്ങൾ രണ്ടും 1 ന് തുല്യമാണെന്ന അധിക വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും പൊതുവെ അവ പാടില്ല നിങ്ങൾ അത് ശ്രദ്ധാപൂർവ്വം കണക്കാക്കണം അതിനാൽ നമുക്ക് ഇത് ഇവിടെ വിലയിരുത്താം അതിനാൽ അത് എന്റെ പൊതു ഫോർമുലയുടെ ആകെത്തുകയാണ് അതിനാൽ അത് ശരിയാകും കൂടാതെ ഇത് എനിക്ക് നൽകാൻ പോകുന്നു ഞങ്ങൾക്ക് ഇത് വളരെ ലളിതമായി വിലയിരുത്താം അതിനാൽ നിങ്ങൾക്ക് ഗണിതത്തിലൂടെ പ്രവർത്തിക്കാൻ കഴിയും ഈ സാഹചര്യത്തിലും നിങ്ങൾക്ക് ഉത്തരം 4 ലഭിക്കും അതിനാൽ ഞങ്ങൾ ചെയ്തത് 2 പോയിന്റിൽ ഗൌസ് ക്വാഡ്രേച്ചർ റൂൾ ഉപയോഗിച്ചാണ് ചെയ്തതെന്ന് നമുക്ക് നിരീക്ഷിക്കാം എനിക്ക് കൃത്യമായ ഉത്തരം 4 ശരിയാക്കാൻ കഴിഞ്ഞു ഇത് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തേണ്ടതില്ല കാരണം 2 N 1 right 2 N 1 ഓർഡർ ചെയ്യാൻ 2 പോയിന്റ് Gauss ക്വാഡ്രേച്ചർ റൂൾ കൃത്യമാണെന്ന് ഞങ്ങൾക്കറിയാം ഈ സാഹചര്യത്തിൽ N 2 ആണ് അതിനാൽ 3 ഞാൻ നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ ഇവിടെ ക്രമപ്പെടുത്തുന്നതിന് ഇത് കൃത്യമാണ് ഒരു ക്യൂബിക് ബഹുപദം അതിനാൽ എനിക്ക് ശരിയായ ഉത്തരം ലഭിച്ചതിൽ അതിശയിക്കാനില്ല കാരണം എല്ലാ വ്യവസ്ഥകളും സംതൃപ്തമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ 2 ഫംഗ്ഷൻ മൂല്യനിർണ്ണയങ്ങൾ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരേ ഉത്തരം ലഭിക്കുമെന്ന് ഇത് നിങ്ങളെ കാണിക്കുന്നു അതേസമയം നിങ്ങൾ കുറച്ച് കൃത്യമല്ലാത്ത ക്വാഡ്രേച്ചർ റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ 3 പോയിന്റ് മൂല്യനിർണ്ണയം പോലും നിങ്ങൾക്ക് തെറ്റായ ഉത്തരം നൽകുന്നു അതിനാൽ ശരിയായ ക്വാഡ്രേച്ചർ നിയമം ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് വീട്ടിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ സംഖ്യാ സംയോജനത്തിലോ ക്വാഡ്രേച്ചറിലോ ഉള്ള ഈ മൊഡ്യൂളിന്റെ അവസാനത്തിലേക്ക് ഇത് ഞങ്ങളെ എത്തിക്കുന്നു